അപ്പോൾ മനഃശാസ്ത്രത്തിൻറെ വിവിധ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനു മുമ്പ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുവരുന്ന വളരെ സാധാരണമായ ഒരു ചോദ്യമുണ്ട് എന്തിനാണ് മനഃശാസ്ത്രം നമ്മൾ എന്തിനുവേണ്ടിയാണ് ഈ വിഷയം പഠിക്കുന്നത് അതിന് കുറച്ച് കാരണങ്ങളുണ്ട് ആദ്യത്തേത് നമ്മൾക്ക് നമ്മളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കുന്നു നമ്മൾക്കെല്ലാവർക്കും അറിയാം മനുഷ്യ സ്വഭാവത്തിന് വളരെയധികം തലങ്ങളുണ്ടെന്ന് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ജീവിത സാഹചര്യങ്ങൾക്ക് ആസ്പദമായി നമ്മൾ നിലകൊള്ളുന്നത് നമ്മൾ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്കനുസൃതമായി നമ്മൾ നിലകൊള്ളണം എങ്കിൽ അതേ സാഹചര്യത്തിലുള്ള മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ മനശാസ്ത്രം വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ഒരുപക്ഷേ വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനെ മെച്ചപ്പെട്ട രീതിയിൽ നേരിടാൻ മനശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നു ഇതുകൂടാതെ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏതുതരം സ്വഭാവ വ്യതിയാനങ്ങളെയും അപാകതകളെയും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും മനഃശാസ്ത്രം സഹായിക്കുന്നു ഏതൊരു സന്ദർഭത്തിലേയും മനുഷ്യൻറെ പെരുമാറ്റം എടുത്തു നോക്കിയാൽ അവിടെ സാധ്യമായ പ്രതികരണങ്ങൾ വളരെ അധികം ഉണ്ടെന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങളുടെ മുന്നിൽ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഒരു പദ്ധതി തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുകയും ഒടുവിൽ ആ പ്രശ്നത്തെ നിങ്ങൾ തരണം ചെയ്യുകയും ചെയ്യുന്നു അതിനെയാണ് മനശാസ്ത്രജ്ഞർ ഡയറക്റ്റ് ഓവേർട്ട് അറ്റാക്ക് എന്നു വിളിക്കുന്നത് അവിടെ ചില സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻസും ഉണ്ടാകാം അതായത് ഒരു സന്ദർഭത്തെ നിങ്ങൾ പ്രത്യക്ഷമായി നേരിടുന്നതിനു പകരമായി ചിലപ്പോൾ മറ്റൊരു പെരുമാറ്റരീതി ആയിരിക്കും നിർദിഷ്ടമായ പ്രവർത്തിക്ക് തെരഞ്ഞെടുക്കുന്നത് മൂന്നാമതൊരു സാധ്യത എന്തെന്നാൽ നിങ്ങൾ ചില പ്രതിരോധങ്ങൾ തീർക്കുന്നു ഇത് ബോർഡർലൈൻ ഡിഫൻസസ്സ് ആണ് ഇത് പ്രധാനമായും അർത്ഥമാക്കുന്നത് നിങ്ങൾ കുറ്റബോധവും അഭിമാനക്ഷതവും ഇല്ലാതെ നിങ്ങളെ തന്നെ പ്രതിരോധിക്കുകയും അതേസമയം അത് സമൂഹത്തിന് സ്വീകാര്യതയുള്ള പരസ്യമായ പ്രതികരണങ്ങൾ ആവുകയും ചെയ്യുന്നു അതിനെയാണ് ബോർഡർലൈൻ ഡിഫൻസ്സീവ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത് പിന്നീടുള്ളത് നിങ്ങൾ എടുക്കുന്ന സാമൂഹിക സ്വീകാര്യത ഇല്ലാത്ത പരസ്യ പ്രതികരണങ്ങളാണ് അവ സാമൂഹിക സ്വീകാര്യതയ്ക്ക് പുറത്തു നിൽക്കുന്നവയാണ് ഡയറക്റ്റ് ഓവേർട്ട് അറ്റാക്കും സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻസും ആരോഗ്യപരമായ പ്രതികരണങ്ങൾ ആയിട്ടാണ് കരുതുന്നത് എന്നാൽ ബോർഡർലൈൻ ഡിഫൻസ് റിയാക്ഷൻസും സാമൂഹിക സ്വീകാര്യത ഇല്ലാത്ത പ്രതികരണങ്ങളും ഗ്രേ സോണിലാണ് വരുന്നത് ബോർഡർലൈൻ സോൺ എന്നുവച്ചാൽ കുറച്ചുകൂടി തീക്ഷ്ണമായ പ്രതികരണമോ അല്ലെങ്കിൽ അതിനു സമാനമായി കണക്കാക്കുവാൻ പറ്റുന്ന സ്വഭാവ മാതൃകയോ ആണ് എന്നാൽ ക്ലീനിഷൻസ് നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യതിചലനം ഉണ്ടെന്ന് കരുതാൻ തുടങ്ങിയാൽ തീർച്ചയായും പെരുമാറ്റത്തിൻറെ ക്ലിനിക്കൽ തലങ്ങൾ വച്ച് നിങ്ങളുടെ സ്വഭാവത്തെ സൈക്കോസൊമാറ്റിക് റെസ്പോൺസസ്സ് അല്ലെങ്കിൽ ന്യൂറോട്ടിക് റെസ്പോൺസസ്സ് അതുമല്ലെങ്കിൽ ഗൌരവകരമായ സൈക്കോട്ടിക് റെസ്പോൺസ് എന്നിവയുടെ ലക്ഷണമായി കണക്കാക്കാം ഇപ്പോൾ നമ്മൾ കരുതുകയാണ് ഞാൻ ഒരു കൂട്ടം മനുഷ്യരെയും ഒരു പ്രത്യേക സന്ദർഭത്തിലുള്ള അവരുടെ പ്രതികരണങ്ങളുടെ മുഴുവൻ ചലനാത്മകതയും നോക്കുകയാണെന്ന് ഇക്കാര്യത്തിൽ എനിക്ക് എത്രത്തോളം വ്യക്തത ഉണ്ടെന്നത് ഇവിടെ സാധ്യതയുള്ള എല്ലാ വ്യതിചലനങ്ങളെ കുറിച്ചുമുള്ള എൻറെ അറിവിനെയും അതുപോലെ തന്നെ സാധാരണ സോണിൽ മനുഷ്യൻറെ സാധ്യമായ എല്ലാ പ്രതികരണങ്ങളെ പറ്റിയുള്ള ധാരണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മന ശാസ്ത്രം ഈ പ്രവർത്തി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു അപ്പോൾ നിങ്ങൾ വിഭ്രമം ഉള്ള പ്രതികരണങ്ങൾ കാട്ടുന്ന ആളുകളുമായി പെരുമാറുമ്പോൾ അവരെ കൂടുതൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു അതുപോലെതന്നെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിവു നേടുമ്പോൾ അത് മാനസികപ്രശ്നങ്ങൾ ഉള്ളവരുടെയും നിങ്ങളുടേയും ജീവിതം കൂടുതൽ ലളിതമാക്കാൻ സഹായകമാകും മനഃശാസ്ത്രം നിങ്ങൾക്ക് നൽകുന്ന മറ്റൊരു പ്രധാനമായ പ്രവർത്തിയാണ് ബന്ധങ്ങളെ മനസ്സിലാക്കുക എന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വിഷയം നിങ്ങളെ മാനസികമായി കൂടുതൽ ആരോഗ്യമുള്ളവരാക്കി തീർക്കുന്നില്ല പക്ഷേ തീർച്ചയായും ഈ അറിവ് നിങ്ങളുടെ തൊഴിൽ സംബന്ധമായതും കുടുംബ സംബന്ധമായതുമായ പരസ്പര ബന്ധത്തിൽ വ്യക്തമായ പ്രഭാവം ഉണ്ടാക്കും മൂന്നാമത്തെ പ്രധാനമായ വശം എന്തെന്നാൽ നിങ്ങൾ ഈ വിഷയത്തിൻറെ അടിസ്ഥാനപരമായ വസ്തുതകൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ലിനെ ശക്തിപ്പെടുത്തുന്നു ഇങ്ങനെ മെച്ചപ്പെടുത്തിയ വിശകലനത്തിനുള്ള കഴിവുപയോഗിച്ച് നിങ്ങൾ കൂടുതൽ ശാസ്ത്രീയമായി സ്വീകാര്യതയുള്ള ഉപായങ്ങളിലൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതെന്താണ് അനലിറ്റിക്കൽ ചിന്താശക്തിയിലുള്ള നിങ്ങളുടെ പരിശീലനവും കൂടാതെ ശാസ്ത്രീയമായ ഉപായങ്ങളും കൊണ്ട് നിങ്ങൾ വളരെ ഉചിതമായ വലിയ ഒരു വേർതിരിക്കൽ നടത്തുന്നു നിങ്ങൾക്ക് കോമൺസെൻസ് ഉള്ളതും റെപ്ലീക്ക്ബിൾ ആയിട്ടുള്ളതുമായ പരാമർശങ്ങൾക്ക് ഇടയിൽ വേർതിരിക്കുവാൻ സാധിക്കുന്നു നമ്മൾ അനുമാനിക്കുന്ന പല കാര്യങ്ങളും സാമാന്യ ബോധത്തിൽ ഉള്ളതാണ് ഇവ ശാസ്ത്രീയമായ നിരീക്ഷണമാണെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാകും അപ്പോൾ ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അപഗ്രഥനപരമായ കഴിവുകളെ വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും മനശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ വാസനയുള്ള പെരുമാറ്റ ഗവേഷണത്തിൽ വളരെയധികം പ്രചാരത്തിലുള്ളതുമായ രീതികളെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കണക്കാക്കാൻ കഴിയും ഇതാണ് നമ്മുടെ അനുമാനം നിങ്ങൾ തന്നെ മുന്നോട്ടു പോയി ഈ നിഗമനത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് കൂടുതൽ സാമാന്യബോധമുള്ള കാര്യമാണ് അല്ലാതെ ശാസ്ത്രീയമായ നിരീക്ഷണമല്ല എന്ന സംശയത്തിലാണ് നിങ്ങൾ മുന്നോട്ടുപോകുന്നത് പിന്നീട് നമ്മൾ മെത്തേഡ്സ് ഓഫ് സൈക്കോളജി എന്നതിനെപറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒബ്സർവേഷൻ എന്ന രീതിയെക്കുറിച്ച് വീണ്ടും പറയുന്നതായിരിക്കും എന്തുകൊണ്ടാണ് വളരെ ലളിതമായ ഒരു നിരീക്ഷണം അനന്തര ഫലത്തെ കൂടുതൽ ശാസ്ത്രീയമാക്കുകയും അല്ലെങ്കിൽ അത് അടിസ്ഥാനപരമായി സാമാന്യബോധമുള്ള ചില തെറ്റുകളോട് കൂടിയ ഒരു നിരീക്ഷണമാകുകയും ചെയ്യുന്നത് ചുരുങ്ങിയത് ഈ വിഷയത്തെ പറ്റി മനസ്സിലാക്കുന്നത് കൂടുതൽ വ്യക്തമായി അനുമാനത്തെ വേർതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു മറ്റൊരു പ്രധാന വശം എന്തെന്ന് വെച്ചാൽ ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ തൊഴിലിടത്തിൽ വളരെയധികം പ്രഭാവം ഉള്ളവരാക്കും കാരണം മനുഷ്യ സ്വഭാവത്തെപ്പറ്റി നിങ്ങൾ അറിവുള്ള വരാകും എന്നുള്ളതാണ് ഇത് തൊഴിലിടത്തിലുള്ള ഹ്യൂമൻ ഡൈനാമിക്സ് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു അതായത് ഒരാൾ ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സ്വീകാര്യവും ചിലത് തിരസ്കൃതവും ചിലത് പരദൂഷണങ്ങളും അപവാദ പ്രചാരണങ്ങളും ചിലത് മുൻവിധിയോടുകൂടിയുള്ള ചിന്താഗതികളും ആകുന്നതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് ചിലർ സഞ്ചാരപ്രിയരും മറ്റു ചിലർ അങ്ങനെ അല്ലാത്തതുമാകുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന മനുഷ്യ സ്വഭാവത്തിൻറെ ചലനാത്മകതയിൽ ഉൾപെടുന്നവയാണ് ഇത് നിങ്ങളെ തൊഴിലിടത്തിൽ കൂടുതൽ പ്രഭാവം ഉള്ളവരാക്കിത്തീർക്കുന്നു മനഃശാസ്ത്രം തീർച്ചയായും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാ ജീവിതവശങ്ങളെയും വളരെയധികം സ്പർശിക്കുന്നു ഇത് ഒരു വലിയ പരിധി വരെ വ്യക്തിപരമോ സാമൂഹികമോ ആയ സ്വഭാവത്തിൽ ഉൾപ്പെട്ടതാവാം ഇത് നിങ്ങളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന സാംസ്കാരിക ഘടകങ്ങൾ കൂടിയാവാം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ അനായാസം മനസ്സിലാക്കാവുന്നതാണ് ഏതൊക്കെയാണ് സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ ബോധവാൻമാരാകുകയും മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഒരുകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു മനഃശാസ്ത്രത്തെ പറ്റിയുള്ള അറിവ് നിങ്ങളുടെ ആശയവിനിമയത്തിനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുന്നു പ്രത്യേകിച്ചും നിങ്ങളുടെ വികാരങ്ങൾ പ്രകടമാക്കുന്ന അവസരങ്ങളിൽ കൂടുതൽ സമീകൃതമായ സമീപനത്തോടുകൂടി ഉചിതമായ ഭാഷയും വാക്ക് പ്രയോഗങ്ങളും അതിനനുസൃതമായ ശരീരഭാഷയും പ്രയോഗിക്കാൻ സഹായിക്കുന്നു എല്ലാം ചേർന്ന് വരുമ്പോൾ മനുഷ്യജീവിതത്തെ അതിൻറെ എല്ലാ രൂപങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും ശിശുക്കൾ യുവാക്കൾ മുതിർന്നവർ വൃദ്ധർ അങ്ങനെയുള്ള എല്ലാ വ്യത്യസ്ത ഭേദങ്ങളിലും കൂടുതൽ അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു അപ്പോൾ ഡയറക്റ്റ് ഓവേർട്ട് അറ്റാക്ക് മുതൽ സ്വഭാവത്തിലെ സൈക്കോട്ടിക് പാറ്റേണിനെ പറ്റി ഞാൻ പ്രതിപാദിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ ഏതു ശ്രേണിയിൽ പെടുന്നവർ ആണെങ്കിലും നിങ്ങൾ ജീവിതത്തെ കൂടുതൽ അംഗീകരിക്കുന്നവർ ആയി തീർന്നിരിക്കും തീർച്ചയായും മനഃശാസ്ത്രത്തെപ്പറ്റിയുള്ള അറിവ് മറ്റു വിഷയങ്ങളിലുള്ള നിങ്ങളുടെ അറിവിനാൽ സമ്പുഷ്ട മാവുകയും അതേസമയം മനഃശാസ്ത്രത്തിലെ നിങ്ങളുടെ അറിവ് മറ്റു വിഷയങ്ങളിലെ അറിവിന് പൂരകമാകുകയും ചെയ്യുന്നു ഇതാണ് എന്തുകൊണ്ട് നമ്മൾ മനഃശാസ്ത്രം പഠിക്കണം എന്ന് പറയുന്നതിന് കാരണം മനഃശാസ്ത്രം എന്തുകൊണ്ടാണ് പ്രാധാന്യമർഹിക്കുന്നത് എന്ന് നിങ്ങളോട് വ്യക്തമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം ഈ കോഴ്സ് തിരഞ്ഞെടുത്തതിൽ നിങ്ങൾക്ക് എൻറെ നന്ദി അറിയിക്കുന്നു എന്തിന് സൈക്കോളജി എന്ന് നമ്മുടെ മനസ്സിൽ കടന്നുവരുന്ന സാധാരണ ചോദ്യത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞതിനുശേഷം ഇനി നമ്മൾ മറ്റ് വശങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാൻ പോകുന്നു എന്തൊക്കെയാണ് ഇതിൻറെ വ്യത്യസ്തമായ മേഖലകൾ ഈ വിഷയം എത്രത്തോളം വിപുലമാണ് മനഃശാസ്ത്രം എന്ന വിഷയവുമായി ഞാൻ മുന്നോട്ടുപോകുമ്പോൾ ഇതിൽ ഏതൊക്കെ വിഷയങ്ങൾ ആണ് ഉൾക്കൊള്ളുന്നത് എനിക്ക് രണ്ടു കാര്യങ്ങളാണ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാനുള്ളത് ഒന്ന് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻറെ വിവിധ വിഭാഗങ്ങളെപ്പറ്റിയാണ് അത് വളരെയധികം ഉണ്ട് ഈ മേഖലകൾ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു ഇതിനു വേണ്ടി അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങളാണ് കൂടുതലായും ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്ന് കാരണം ഇത് മനശാസ്ത്രജ്ഞർ കടന്നു ചെന്നിരിക്കുന്ന വ്യത്യസ്തമായ മേഖലകളെ പറ്റി മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു ഇതിൽ ഞാൻ പ്രധാനമായും മുന്നിട്ടുനിൽക്കുന്ന മേഖലകളിലൂടെ കടന്നു പോകുന്നു കൂടാതെ ഇപ്പോഴും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ചില മേഖലകളും ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ സ്ഥാനം ഉറപ്പിച്ച് എടുക്കേണ്ടതുമായ മേഖലകളും പ്രതിപാദിക്കുന്നു അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻറെ ആദ്യത്തെ ഡിവിഷൻ ജനറൽ സൈക്കോളജി എന്ന് അറിയപ്പെടുന്നു അടിസ്ഥാനപരമായി ഇതിന് വൈവിധ്യമാർന്ന പ്രത്യേക തലങ്ങളുണ്ട് അത് മനഃശാസ്ത്രത്തിൻറെ ഉപ വിഭാഗങ്ങളുടെ അനേകം കാഴ്ചപ്പാടുകളെ കോർത്തിണക്കുന്നു രണ്ടാമത്തെ ഡിവിഷൻ ടീച്ചിംഗ് ഓഫ് സൈക്കോളജി എന്നതാണ് ഇത് വിഷയത്തിൻറെ അധ്യാപനത്തിനും പഠനത്തിനും വേണ്ടിയുള്ള ഉപാധികളും സേവനങ്ങളും നൽകുന്നു കൂടാതെ തൊഴിൽപരമായ വികസനത്തിന് വേണ്ടിയുള്ള കൊളാബറേറ്റീവ്വ് കമ്മ്യൂണിറ്റി ലഭ്യമാക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ ഡിവിഷൻ എക്സ്പീരിമെൻറൽ സൈക്കോളജി വിഭാഗമാണ് അത് അടിസ്ഥാനപരമായും എക്സ്പീരിമെൻറൽ സൈക്കോളജിക്കും കോഗ്നെറ്റീവ് സയൻസിനും വേണ്ടിയുള്ള ഒരു സമൂഹമാണ് ഇത് എക്സ്പീരിമെൻറൽ സൈക്കോളജിയെ ശാസ്ത്രമായി വികസിപ്പിച്ചെടുക്കുന്നതിന് ഊന്നൽ കൊടുക്കുന്നു അഞ്ചാമത്തെ ഡിവിഷൻ ക്വാണ്ടിറ്റേറ്റീവ്വും ക്വാളിറ്റേറ്റീവ്വും ആയ മാർഗ്ഗത്തെ കൈകാര്യം ചെയ്യുന്നു അടിസ്ഥാനപരമായും ഊന്നൽ കേന്ദ്രീകരിക്കുന്നത് ഇവാലുവേഷൻ മെഷർമെൻറ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിലാണ് പിന്നീട് ഇതിലെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മനുഷ്യരുടെ ചിന്തിച്ച് എടുക്കാവുന്ന ഏകദേശം എല്ലാ കഴിവുകളെയും അളന്നെടുക്കാൻ മനശാസ്ത്രജ്ഞർ ശ്രമിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഒരിക്കൽ നിങ്ങൾ അളന്നു നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്വഭാവ വിശേഷത്തെ മാറ്റുമ്പോൾ ബിഹേവിയറൽ ഔട്ട്കം നിങ്ങൾ ചില അക്കങ്ങളായി മാറ്റുകയും പിന്നീട് തീർച്ചയായും നിങ്ങൾക്ക് വിശകലനത്തിനായി സ്റ്റാറ്റിറ്റിക്സ് ആവശ്യമായി വരുന്നതുമാണ് അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആയ ഡേറ്റാ ശേഖരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഉപാധികളും ഉണ്ടാവും ഉദാഹരണത്തിന് ഒരാളോട് സംസാരിച്ചു കൊണ്ട് വിവരണ ശേഖരം നടത്തുകയും ആ വിവരണം വിശകലനം ചെയ്യുകയും ആവാം അപ്പോൾ ഈ വിഷയം ക്വാണ്ടിറ്റേറ്റീവ്വും ക്വാളിറ്റേറ്റീവ്വുമായ രണ്ടു മാർഗങ്ങളെയും സ്വീകരിക്കുന്നു അതായത് പ്രോഗ്രാം ഇവാലുവേഷൻ മെഷർമെൻറ് സ്റ്റാറ്റിസ്റ്റിക്സ് അസൈമെൻറ് അതുപോലെ മറ്റ് വിവിധ തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ആയ മാർഗ്ഗങ്ങളും ഉൾപ്പെടുന്നു അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻറെ ആറാമത്തെ ഡിവിഷൻ അടിസ്ഥാനപരമായി ബിഹേവിയറൽ ന്യൂറോസയൻസ് ആൻഡ് കംപാരറ്റീവ് സൈക്കോളജി കൈകാര്യം ചെയ്യുന്നു കംപാരറ്റീവ് സൈക്കോളജിയിൽ നിങ്ങൾ മനുഷ്യൻറെയും മൃഗങ്ങളുടെയും സ്വഭാവത്തിലുള്ള സാദൃശ്യങ്ങളും അന്തരങ്ങളും അന്വേഷിക്കുന്നു അടിസ്ഥാനപരമായും നിങ്ങൾ പരിണാമത്തിൻറെയും വികസനത്തിൻറെയും കാഴ്ചപ്പാടിൽ നിന്നു കൊണ്ടാണ് ഇവ നോക്കിക്കാണുന്നത് ബിഹേവിയറൽ ന്യൂറോസയൻസ് സ്വഭാവത്തിൻറെ ജീവശാസ്ത്രപരമായ തലത്തെ നോക്കിക്കാണുന്നു അതായത് സ്വഭാവവും അവബോധം ഓർമശക്തി കോഗ്നിഷൻ പ്രചോദനം മനോവികാരം എന്നിവ തമ്മിലുള്ള ബന്ധത്തെയും പരിശോധിക്കുന്നു മനഃശാസ്ത്രത്തിൻറെ പൊതുവായ വിഷയങ്ങളായ ഇവയെയൊക്കെ കണക്കിലെടുക്കുന്നു അതുപോലെതന്നെ തലച്ചോറും സ്വഭാവവും തമ്മിലുള്ള ബന്ധം അതിൻറെ പരിണാമം അതിൻറെ പ്രവർത്തനം തലച്ചോറിൻറെ അസ്വാഭാവികതകൾ എന്നിവയും പരിശോധിക്കുന്നു ന്യൂറോ പ്ലാസ്റ്റിറ്റിസിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് തലച്ചോറിന് ക്ഷതമേറ്റു കഴിയുമ്പോൾ തലച്ചോർ സ്വയം കേടുപാട് തീർക്കുന്നത് ഇവയെല്ലാം ഈ ശാഖയിൽ ഉൾക്കൊള്ളുന്നു ബ്രെയിൻ ബിഹേവിയർ ഇൻറർആക്ഷൻ ഇമ്മ്യൂൺ സിസ്റ്റവും ആയിട്ടുള്ള ഇൻറർആക്ഷൻ കാർഡിയോവാസ്കുലർ സിസ്റ്റവും എനർജി റെഗുലേഷൻ സിസ്റ്റവും ഇവയെല്ലാമായി തലച്ചോറിന് ഉള്ള പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ഇപ്പോൾ ഈ ഡിവിഷൻറെ വിശാലമായ മേഖലകളിൽ ഉൾപ്പെടുന്നു ഏഴാമത്തെ ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത് ഡെവലപ്മെൻറൽ സൈക്കോളജി ആണ് ഇത് അടിസ്ഥാനപരമായി ശാസ്ത്രീയമായ അറിവിനെ വിദ്യാഭ്യാസപരമായ ശിശുക്ഷേമ പദ്ധതികളിലും മറ്റു അനുബന്ധ സംവിധാനങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എട്ടാമത്തെ ഡിവിഷനിൽ പേഴ്സണാലിറ്റിയും സോഷ്യൽ സൈക്കോളജിയും ആണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇവിടെ പേഴ്സണാലിറ്റി യുടെയും സോഷ്യൽ സൈക്കോളജിയുടെയും മേഖലയിലെ അടിസ്ഥാനവും അപ്ലൈഡ് ഗവേഷണവും കൂടാതെ പ്രയോഗവും നോക്കുന്നു സാമൂഹികവും ഭൌതികവുമായ അന്തരീക്ഷങ്ങളെയും അവിടെയുള്ള മനുഷ്യൻറെ പ്രതികരണങ്ങളെയും ഉൾക്കൊള്ളുന്നു ഒൻപതാമത്തെ ഡിവിഷൻ സൊസൈറ്റി ഫോർ സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ആണ് ഇത് മനഃശാസ്ത്രജ്ഞരും പ്രായോഗിക സാമൂഹികശാസ്ത്രജ്ഞരും വിവിധ സാമൂഹിക പ്രശ്നങ്ങളിലെ പൊതുവായതും മനഃശാസ്ത്രപരവുമായ ഘടകങ്ങളും അവരുടെ ചിന്തകളും പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു മേഖലയാണ് ഒരേപോലെയുള്ള മനുഷ്യ പ്രശ്നങ്ങളാണ് അത് കൂട്ടായ്മ ആയാലും സമൂഹത്തിൻറെ ആയാലും രാഷ്ട്രത്തിൻറെ ആയാലും ചിലപ്പോൾ രാഷ്ട്ര രേഖകൾ പോലും കടന്നുള്ള പ്രശ്നങ്ങൾ ആണെങ്കിലും ഈ ഡിവിഷനിൽ ഉൾക്കൊള്ളുന്നു സൈക്കോളജി ആൻഡ് ദി ആർട്സ് എടുത്തു കഴിഞ്ഞാൽ കല സഹജമായും മറ്റ് വിജ്ഞാന ശാഖകളുമായി കൂടുതൽ ഇടകലർന്ന ഒന്നാണ് ഇതിൽ ദൃശ്യകലകളും കവിതകളും സാഹിത്യവും സംഗീതവും നൃത്തവും ഉൾപ്പെടുന്നു അപ്പോൾ നിങ്ങൾ സർഗാത്മകമായതും കലാപരമായതുമായ ഭാഗമാണ് കാണുന്നത് സർഗ്ഗാത്മകതയിൽ വികസനപരമായതും പ്രചോദനപരമായതും വികാര സംബന്ധിയായതുമായ പ്രക്രിയകൾ ഉൾക്കൊള്ളുന്നു എന്നാൽ കലയുടെ ഭാഗം എടുത്താൽ അവിടെ സൌന്ദര്യശാസ്ത്രപരമായ വിഷയങ്ങളും രൂപങ്ങളും പ്രവർത്തനങ്ങളും അടങ്ങുന്നു എങ്ങനെയാണ് കാണികൾ അവരുടെ അഭിരുചിക്ക് അനുസൃതമായി അത്തരത്തിലുള്ള കലകളോട് പ്രതികരിക്കുന്നത് എന്നും വിമർശനാത്മകമായി കലാനിർമ്മിതിയെ സമീപിക്കുന്നത് എന്നും നോക്കുന്നു ഇതാണ് സൈക്കോളജിയും കലയും ചെയ്യുന്നത് പന്ത്രണ്ടാമത്തെ ഡിവിഷൻ വളരെ പൊതുവായി അറിയപ്പെടുന്ന ക്ലിനിക്കൽ സൈക്കോളജി ഡിവിഷനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിയുടെ ശാസ്ത്രീയമായ വശങ്ങളാണ് ഇവിടെ വ്യക്തിപരമായ വിശകലനം ക്ലിനിക്കൽ ജറോസൈക്കോളജി എന്നിവയ്ക്കും ഊന്നൽ നൽകുന്നു കൂടാതെ മറ്റ് പ്രത്യേക ഗ്രൂപ്പുകൾ സ്ത്രീകളിലും വംശീയമായ ന്യൂനപക്ഷങ്ങളിലും ശ്രദ്ധകേന്ദ്രീകരിച്ചിരിക്കുന്നു പതിമൂന്നാമത്തെ ഡിവിഷൻ കൺസൾട്ടിംഗ് സൈക്കോളജി ഡിവിഷനാണ് ഈ ഡിവിഷനിൽ അടിസ്ഥാനപരമായും വിദഗ്ധോപദേശ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന അപ്ലൈഡ് ആക്ടിവിറ്റീസ് റിസേർച്ച് കൂടാതെ ഇവാലുവേഷനും എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കൺസൾട്ടേഷണൽ സ്കിൽസ് തിയറിയും നോളജ് ഡെവലപ്മെൻറും ഉൾപ്പെടുന്നു പതിനാലാമത്തെ ഡിവിഷനും സൈക്കോളജിയുടെ വളരെ പൊതുവായ ഒരു മേഖലയായ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി ഡിവിഷൻ ആണ് ഇത് എല്ലാത്തരം വ്യവസ്ഥിതികളിലും തൊഴിൽ സംവിധാനങ്ങളിലും മനഃ ശാസ്ത്രം പ്രയോഗിക്കുന്നതിനുവേണ്ടി ശ്രമിക്കുന്നു ഇത് വ്യവസായ സംരംഭങ്ങളോ തൊഴിലാളി യൂണിയനുകളോ പൊതുമേഖല ഏജൻസികളോ ആകാം ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം എങ്ങനെയാണ് മനുഷ്യൻറെ ചലനാത്മകതകൾ പ്രതിഫലിക്കുന്നതെന്ന് ഇവിടെ പരിശോധിക്കുന്നു ടെസ്റ്റിംഗ്അസൈസ്മെൻറ് നേതൃപാടവം ടീം മാനേജ്മെൻറ് തൊഴിലിടത്തിലെ സുരക്ഷിതത്വം തൊഴിലും ജീവിതവും തമ്മിലുള്ള സംതുലനം കൂടാതെ വൈവിധ്യമാർന്ന സന്ദർഭങ്ങൾ പരിശോധിക്കുക എങ്ങനെയാണ് അത്തരം സന്ദർഭങ്ങളോട് ഒരാൾ ഇണങ്ങുന്നതെന്ന് മനസ്സിലാക്കുക എന്നിവയാണ് ഈ മേഖലയിൽ വ്യാപൃതരായിരിക്കുന്ന മനഃശാസ്ത്രജ്ഞർ അന്വേഷിക്കുന്നത് പതിനഞ്ചാമത്തെ ഡിവിഷൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡിവിഷനാണ് ഇവിടെ ഗവേഷണവും വിദ്യാഭ്യാസ പശ്ചാത്തലത്തിലുള്ള അധ്യാപനം അല്ലെങ്കിൽ പരിശീലനം വിസ്തൃതമായ അധ്യാപന പരിശീലന പഠന പ്രശ്നങ്ങളിൽ അവയുടെ പ്രായോഗികതയും പരിശോധിക്കുന്നു പതിനാറാമത്തെ ഡിവിഷൻ സ്കൂൾ സൈക്കോളജി ഡിവിഷനാണ് അത് സമഗ്രമായ സൈക്കോളജി സേവനങ്ങൾ കുട്ടികളിലേക്കും കൌമാരക്കാരിലേക്കും കുടുംബങ്ങളിലേക്കും സ്കൂളുകൾ വഴിയും മറ്റു സംവിധാനങ്ങൾ വഴിയും എത്തിച്ചുനൽകുന്നത് സംബന്ധിച്ചതാണ് പതിനേഴാമത്തെ ഡിവിഷൻ വീണ്ടും വളരെ പ്രസിദ്ധമായ തിലൊന്നാണ് കൌൺസിലിംഗ് സൈക്കോളജി ഡിവിഷൻ ഈ ഡിവിഷൻ വ്യാപൃതമായിരിക്കുന്നത് വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും ശാസ്ത്രീയമായ പരിശോധനകളിലും പ്രയോഗങ്ങളിലും വൈവിധ്യങ്ങളിലുമാണ് അതുപോലെതന്നെ ഇവർ പ്രൊഫഷണൽ സൈക്കോളജിയിലുള്ള പൊതു താൽപര്യങ്ങൾക്കും ഊന്നൽ കൊടുക്കുന്നു പതിനെട്ടാമത്തെ ഡിവിഷൻ സൈക്കോളജിസ്റ് ഇൻ പബ്ലിക് സർവീസ്സ് ആണ് ഇവിടെ സൈക്കോളജിയുടെ പ്രയോഗം ഗവേഷണം പരിശീലനം പദ്ധതി രൂപീകരണം കമ്മ്യൂണിറ്റി ആശുപത്രികളിലെയും സർക്കാർ ആശുപത്രികളികളിലെയും മനഃശാസ്ത്രജ്ഞർ ക്രിമിനൽ ജസ്റ്റിസ് പോലീസ് സാമൂഹിക സുരക്ഷിതത്വം കൂടാതെ വെറ്ററൻസ് അഫയേഴ്സ് പരിശോധിക്കുന്ന മനഃശാസ്ത്രജ്ഞർ എന്നീ മേഖലകളിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇവയൊക്കെയാണ് ഇവർ വ്യാപൃതരായിരിക്കുന്ന കാര്യങ്ങൾ പത്തൊമ്പതാമത്തെ ഡിവിഷൻ മിലിറ്ററി സൈക്കോളജി ഡിവിഷനാണ് ഇവിടെ സായുധ സേനകളുടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുവേണ്ടി എങ്ങനെയൊക്കെ സൈക്കോളജിക്കൽ റിസർച്ച് ഉപയോഗിക്കാമെന്ന് പരിശോധിക്കുന്നു ഇരുപതാമത്തെ ഡിവിഷൻ അഡൾട്ട് ഡെവലപ്മെൻറ് കൂടാതെ ഏജിങ് എന്നിവയെ സംബന്ധിച്ചുള്ളതാണ് അടിസ്ഥാനപരമായി മാനസികമായ വികാസവും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് കാണപ്പെടുന്ന മാറ്റങ്ങളുമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഇരുപത്തി ഒന്നാമത്തെ ഡിവിഷൻ അപ്ലൈഡ് എക്സ്പിരിമെൻറൽ ആൻഡ് എൻജിനീയറിങ് സൈക്കോളജിസ്റ് ഡിവിഷനാണ് ഇവർ പ്രധാനമായും സൈക്കോളജിയുടെ തത്വങ്ങളും അറിവും ഗവേഷണവും ഉപയോഗിച്ച് ടെക്നോളജി കൺസ്യൂമർ പ്രോഡക്റ്റ്സ് എനർജി സിസ്റ്റംസ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഡിസിഷൻ മേക്കിങ് പ്രോസസ് വർക്ക് സെറ്റിംഗ്സ് ലിവിങ് എൻവിയോൺമെൻറ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്നു അപ്പോൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെകുറിച്ചുള്ള മെച്ചപ്പെട്ട ധാരണയിലൂടെ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവും വിശ്വസ്തവുമായ സിസ്റ്റങ്ങൾ ലഭ്യമാക്കുക എന്നതിലാണ് അപ്ലൈഡ് എക്സ്പിരിമെൻറ് സൈക്കോളജിസ്റ് കൂടാതെ എൻജിനീയറിങ് സൈക്കോളജിസ്റ് എന്നിവർ ശ്രദ്ധകേന്ദ്രീകരിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ ഡിവിഷൻ റിഹാബിലിറ്റേഷൻ സൈകോളജി യാണ് പ്രതിപാദിക്കുന്നത് ഈ ഡിവിഷൻ വൈകല്യത്തിൻറെയും പുനരധിവാസത്തിൻറെയും മനഃശാസ്ത്രപരമായ വിവിധ തലങ്ങളെ നോക്കി കാണുന്നു ഇരുപത്തിമൂന്നാമത്തെ ഡിവിഷൻ കൺസ്യൂമർ സൈക്കോളജി ആണ് ഇത് നോക്കി കാണുന്നത് ഉപഭോക്തൃ മനഃശാസ്ത്രം ആണ് സാമൂഹികക്ഷേമം ഇതിൻറെ ഒരു ഭാഗമാണ് ഇരുപത്തിനാലാമത്തെ ഡിവിഷൻ തിയററ്റിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ സൈക്കോളജി ആണ് ഇവിടെ മനഃശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളും പ്രശ്നങ്ങളും അവയിലെ രണ്ടിലേയും ശാസ്ത്രീയവും സൈദ്ധാന്തികവുമായ തലങ്ങളെയും തിരയുന്നു ഒപ്പം ഇവ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു ഇരുപത്തിയഞ്ചാമത്തെ ഡിവിഷൻ എക്സ്പിരിമെൻറൽ അനാലിസിസ് ഓഫ് ബിഹേവിയർ ആണ് ഇവിടെ പരീക്ഷണാത്മകമായ വിശകലനം നടത്തി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സ്വഭാവത്തെ പഠിക്കുന്നു കൂടാതെ അങ്ങനെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പെരുമാറ്റത്തെകുറിച്ച് പരീക്ഷണ ഫലമായി ലഭിച്ച ധാരണയുടെ അടിസ്ഥാനത്തിൽ അവയെ എങ്ങനെ മനുഷ്യ വ്യവഹാരങ്ങളിൽ പ്രായോഗികമാക്കുവാൻ സാധിക്കുമെന്ന് പരിശോധിക്കുന്നു അപ്പോൾ ഇതാണ് അവർ ചെയ്യുന്ന എക്സ്പിരിമെൻറൽ അനാലിസിസ് ഓഫ് ബിഹേവിയർ ഇരുപത്തിയാറാമത്തെ ഡിവിഷൻ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി ഡിവിഷനാണ് ഇവിടെ സൈക്കോളജിയുടെ ചരിത്രത്തെപറ്റിയുള്ള ബോധവൽക്കരണവും ആസ്വാദനവും സമകാലിക സൈകോളജിയെപറ്റിയുള്ള അറിവ് മറ്റ് ശാസ്ത്രീയ വിഭാഗങ്ങളുമായുള്ള സൈക്കോളജിയുടെ ബന്ധം സമൂഹത്തിൽ സൈക്കോളജിക്കുള്ള സ്ഥാനം എന്നിവയാണ് പ്രതിപാദിക്കുന്നത് 27 മത്തെ ഡിവിഷൻ കമ്മ്യൂണിറ്റി സൈക്കോളജി ആണ് ഇവിടെ കമ്മ്യൂണിറ്റി എന്നുപറയുന്നതിൽ ഉൾപ്പെടുന്ന വ്യക്തികളും സാമൂഹിക സമ്പ്രദായങ്ങളും തമ്മിൽ പരസ്പരമുള്ള ബന്ധങ്ങൾ പരിശോധിക്കുന്നു ഇരുപത്തിയെട്ടാമത്തെ ഡിവിഷനിൽ ഉൾപ്പെടുന്നത് സൈക്കോഫാർമകോളജിയും സബ്സ്റ്റൻസ് അബ്യൂസുമാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇവർ മയക്കുമരുന്ന് സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന പ്രഭാവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു സൈക്കോ ആക്ടീവ് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നിവയുടെ മരുന്നുകൾ ഡ്രഗ്സ് കെമിക്കൽസ് തുടങ്ങിയവ പെരുമാറ്റത്തിൽ ഉണ്ടാക്കുന്ന പ്രഭാവം മൃഗങ്ങളിലും മനുഷ്യരിലും പെരുമാറ്റവും ഡ്രഗ്സ്സും മറ്റ് പാരിസ്ഥിതികമായ ഘടകങ്ങളും തമ്മിലുള്ള പ്രവർത്തനം എന്നിവ പരിശോധിക്കപ്പെടുന്നു ന്യൂറോ ബിഹേവിയറൽ ടോക്സിക്കോളജി സൈക്കോ ഫാർമക്കോളജി എന്നിവയും മൃഗങ്ങളെ കേന്ദ്രീകരിക്കുന്ന ഗവേഷണ വിഭാഗം പരിശോധിക്കുന്നു കൂടാതെ പ്രധാനമായും മയക്കുമരുന്ന് ആസക്തി ചികിത്സ മരുന്ന് സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളും പൊതു നയങ്ങളും സബ്സ്റ്റൻസ് അബ്യൂസ് എന്നിവയും ഈ ഡിവിഷൻ ശ്രദ്ധാപൂർവ്വം നോക്കുന്നു ഇരുപത്തി ഒമ്പതാമത്തെ ഡിവിഷൻ സൈക്കോ തെറാപ്പി ഡിവിഷനാണ് സൈക്കോതെറാപ്പി ഡിവിഷൻ അടിസ്ഥാനപരമായും നോക്കുന്നത് സൈക്കോതെറാപ്പിയുടെ സംരക്ഷണവും വികസനവും വസ്തുതയിൽ ഊന്നിയുള്ള സൈക്കോതെറാപ്പി സൈക്കോതെറാപ്യൂട്ടിക് ബന്ധങ്ങളുടെ മുന്നേറ്റവുമാണ് മുപ്പതാമത്തെ ഡിവിഷൻ സൈക്കോളജിക്കൽ ഹിപ്നോസിസ് ഡിവിഷനാണ് ഇവ നോക്കിക്കാണുന്നത് ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം വിഘടനം എന്നിവയാണ് പക്ഷേ പ്രധാനമായും ഹിപ്നോസിസ് എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ സ്വഭാവ ചികിത്സയിൽ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കുന്നു 31 മത്തെ ഡിവിഷൻ സ്റ്റേറ്റ് സൈക്കോളജിക്കൽ അസോസിയേഷൻ അഫയേഴ്സ് എന്നതിനെ സംബന്ധിച്ചുള്ളതാണ് അതിൻറെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല മുപ്പത്തിരണ്ടാമത് ഡിവിഷൻ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ഡിവിഷനാണ് അത് മനുഷ്യ അനുഭവങ്ങളുടെ മുഴുവൻ ബാഹുല്യം നോക്കിക്കാണുന്നു ഫിലോസഫിക്കൽ ഹ്യൂമനിസം എക്സ്സിസ്റ്റൻഷലിസം ഫിനോമിനോളജി സൈക്കോതെറാപ്പി വിദ്യാഭ്യാസം നിയന്ത്രണം സാമൂഹിക ഉത്തരവാദിത്വം മാറ്റങ്ങൾ ഇവയൊക്കെയാണ് ഹ്യൂമനിസ്റ്റിക് മനഃശാസ്ത്രജ്ഞരുടെ പ്രധാനമായുള്ള വിഷയങ്ങൾ മുപ്പത്തിമൂന്നാമത്തെ ഡിവിഷൻ ഇൻറലെക്ച്വൽ ആൻഡ് ഡെവലപ്മെൻറ് ഡിസബിലിറ്റിഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ intellectual and developmental disability autism spectrum disorders എന്നതാണ് ഒരിക്കൽകൂടി ഈ പേര് സൂചിപ്പിക്കുന്നതുപോലെ അവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം പരിമിത പെടുത്തിയിരിക്കുന്നത് ബൌദ്ധികവും വികാസപരവുമായ വൈകല്യങ്ങളുടെ ചികിത്സാ പ്രക്രിയയിലാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആൻഡ് ടെക്നോളജി ഡ്യൂവൽ ഡയഗ്നോസിസ് ഏർലി ഇൻറർവെൻഷൻ ഏജിങ് അഡൾട്ട് ഡെവലപ്മെൻറ് എന്നിവ കൂടാതെ പ്രായപൂർത്തിയായ അവസ്ഥയിലേക്കുള്ള പരിവർത്തനവും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് മുപ്പത്തിനാലാമത്തെ ഡിവിഷൻ എൻവിയോൺമെൻറൽ പോപ്പുലേഷൻ കൂടാതെ കൺസർവേഷൻ സൈക്കോളജി എന്നിവയാണ് ഇവിടെ മനുഷ്യരും മറ്റു സ്വാഭാവികമായ പരിസ്ഥിതിയും നിർമ്മിതമായ പരിസ്ഥിതിയും തമ്മിലുള്ള സമ്പർക്കത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു നിർമിത ഇടം ഭൂദൃശ്യം സ്വാഭാവിക പ്രകൃതി എന്നിവയുടെ രൂപരേഖയുമായി മനുഷ്യരുടെ സ്വഭാവം ക്ഷേമം എന്നിവയ്ക്കുളള ബന്ധം വന്യജീവികളുടെയും മറ്റു സ്പീഷീസുകളുടെയും സംരക്ഷണം മനുഷ്യൻറെ മാനസിക ആരോഗ്യവും പാരിസ്ഥിതികമായ സാഹചര്യങ്ങളും തമ്മിലുള്ള കൂട്ടുപ്രവർത്തനം കൂടാതെ ഉയർന്ന ജനസാന്ദ്രതയുടെ മാനസികമായ അനന്തരഫലങ്ങൾ ഇവയെല്ലാമാണ് എൻവിയോൺമെൻറൽ പോപ്പുലേഷൻ കൺസർവേഷൻ സൈക്കോളജിസ്റ്റുകളുടെ പ്രധാന ചർച്ചാവിഷയങ്ങൾ 35 മത്തെ ഡിവിഷൻ സൈക്കോളജി ഓഫ് വിമൻ ഡിവിഷനാണ് ഇവിടെ സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ താല്പര്യമുള്ള ഫെമിനിസ്റ്റുകളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിവരുന്ന സംഘടനാപരമായ അടിത്തറ പരിശോധിക്കപ്പെടുന്നു മുപ്പത്തിയാറാമത്തെ ഡിവിഷൻ സൈക്കോളജി ഓഫ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി ആണ് ഇവിടെ വ്യത്യസ്തങ്ങളായ മതങ്ങളുടെയും ആത്മീയതയുടെയും വ്യാഖ്യാന കെട്ടുപാടുകൾ പരിശോധിക്കുന്നു മാനസികവും മതപരവുമായ കാഴ്ചപ്പാടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇടയിൽ നടക്കുന്ന സംവാദങ്ങളും കൊടുക്കൽവാങ്ങലുകളുമാണ് അവർ പ്രധാനമായും നിരീക്ഷണത്തിനു വിധേയമാക്കുന്നത് 37 ആമത്തെ ഡിവിഷൻ ചൈൽഡ് ആൻഡ് ഫാമിലി പോളിസി ആൻഡ് പ്രാക്ടീസ് ആണ് ഇവിടെ നോക്കുന്നത് കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള സേവനങ്ങളും സേവന ഘടനയുമാണ് തൊഴിൽ വിദ്യാഭ്യാസം വിനോദം കുടുംബാസൂത്രണം പോലെയുള്ള തലങ്ങളിൽ മനശാസ്ത്രപരമായ അറിവിനെ മറ്റ് മേഖലകളായ ആന്ത്രപ്പോളജി നിയമം പീഡിയാട്രിക്സ് എന്നിവയുമായി അവർ ബന്ധിപ്പിക്കുന്നു വർഗീയമായ ന്യൂനപക്ഷങ്ങളുടെ നിർണായകമായ ആവശ്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള മാധ്യമങ്ങൾ കുട്ടികളുടെ ദുരുപയോഗം തടയൽ പദ്ധതികളുടെ ഫലപ്രാപ്തി കുട്ടികളിലെ അക്രമാസക്തരായവരെ ചികിത്സയ്ക്ക് വിധേയമാക്കുക എന്നിവയിലെല്ലാം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു 38 മത്തെ ഡിവിഷൻ ഹെൽത്ത് സൈക്കോളജി ഡിവിഷനാണ് ഇക്കാലത്ത് വളരെയധികം പ്രസിദ്ധമായ ഈ ഡിവിഷൻ അടിസ്ഥാനപരമായ രീതിയിലൂടെയും ക്ലിനിക്കൽ ഗവേഷണത്തിലൂടെയും ആരോഗ്യവും അസുഖവും നിരീക്ഷിക്കുന്നു ആരോഗ്യവും അനാരോഗ്യവും സംബന്ധമായ ബയോമെഡിക്കൽ വിവരങ്ങൾ ഇപ്പോഴുള്ള മനശാസ്ത്ര വിജ്ഞാനവുമായി അവർ കൂട്ടിച്ചേർക്കുന്നു കൂടാതെ ഈ പ്രത്യേക താൽപര്യ ഗ്രൂപ്പുകൾ വൃദ്ധരുടെയും സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധചെലുത്തുന്നു 39 മത്തെ ഡിവിഷൻ സൈക്കോ അനാലിസിസ് ആണ് ഇവിടെ പ്രധാനമായും സൈക്കോ അനാലിസിസ് സൈക്കോ അനലിറ്റിക് സൈക്കോതെറാപ്പി എന്നിവയുടെ പഠനവും പരിശീലനവും വികസനവുമാണ് കൈകാര്യം ചെയ്യുന്നത് നാല്പതാമത്തെ ഡിവിഷൻ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജി ഡിവിഷനാണ് ഇവിടെ തലച്ചോറും മനുഷ്യ സ്വഭാവവും തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത് സൈക്കോളജിയുടെ ഫിസിയോളജിക്കൽ കോഗ്നിറ്റീവ് ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ് ക്ലിനിക്കൽ റീഹാബിലിറ്റേഷൻ സ്കൂൾ ഫോറൻസിക് ഹെൽത്ത് എന്നീ വശങ്ങളും പരിശോധിക്കുന്നു 41 മത്തെ ഡിവിഷൻ അമേരിക്കൻ സൈക്കോളജി ലോ സൊസൈറ്റി ആണ് അടിസ്ഥാനപരമായും ഉള്ള ഊന്നൽ നിയമങ്ങളെയും നിയമവ്യവസ്ഥിതികളെയും മനസ്സിലാക്കുവാനാണ് ഇവിടെ നിയമഘടനയിൽ മനഃശാസ്ത്രത്തിൻറെ പ്രായോഗികമായ ഉപയോഗം പരിശോധിക്കുന്നു നാല്പത്തിരണ്ടാമത്തെ ഡിവിഷൻ സൈക്കോളജിസ്റ് ഇൻ ഇൻഡിപെൻഡൻഡ് പ്രാക്ടീസ് ആണ് ഇവർ ഉപകരണങ്ങളും പഠനാവസരങ്ങളും ഉപയോഗിച്ച് തൊഴിൽപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഫാമിലി സൈക്കോളജി ആണ് നാല്പത്തി മൂന്നാമത്തെ ഡിവിഷൻ ഇവിടെ കുടുംബവും ദമ്പതികളുമാണ് ശ്രദ്ധാകേന്ദ്രം നാല്പത്തി നാലാമത്തെ ഡിവിഷൻ സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് ലെസ്ബിയൻ ഗെ ബൈസെക്ഷ്വൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് psychological study of Lesbian Gay Bisexual and Transgender issues എന്നതാണ് ഇവർ പ്രധാനമായും മനുഷ്യൻറെ ലൈംഗികമായ ആഭിമുഖ്യങ്ങളുടെ വ്യാപ്തിയിൽ പൂർണ്ണമായും ശ്രദ്ധചെലുത്തുന്നു തൊഴിൽപരമായ നിലവാരങ്ങൾ ജനകീയ പദ്ധതികൾ യുവത്വം കുടുംബങ്ങൾ വർഗീയവംശീയ ന്യൂനപക്ഷ പ്രശ്നങ്ങങ്ങൾ എന്നിവയെപ്പറ്റിയും കൂടാതെ മനുഷ്യൻറെ ലൈംഗികമായ ആഭിമുഖ്യങ്ങൾക്ക് പിറകിലുള്ള ശാസ്ത്രത്തെ പറ്റിയുമാണ് നാല്പത്തി നാലാമത്തെ ഡിവിഷൻ പരിശോധിക്കുന്നത് നാല്പത്തി അഞ്ചാമത്തെ ഡിവിഷൻ സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് കൾച്ചർ എത്ത്നിസിറ്റി ആൻഡ് റെയ്സ് എന്നതാണ് ഇവിടെ മനഃശാസ്ത്രപരമായ അറിവ് വംശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളിലും അതുകൂടാതെ സാമൂഹിക ക്ഷേമത്തിനുവേണ്ടിയും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു 46 ആമത്തെ ഡിവിഷനിലുള്ളത് മീഡിയ സൈക്കോളജി ആൻഡ് ടെക്നോളജി ആണ് ഇവിടെ മാധ്യമ ആശയവിനിമയവും സാങ്കേതിക വിദ്യയും മാധ്യമങ്ങൾക്ക് മനുഷ്യ സ്വഭാവത്തിലുള്ള സ്വാധീനം ജനതയ്ക്കും തൊഴിൽ മേഖലയ്ക്കും ഒഴിച്ചുകൂടാനാകാത്ത മാധ്യമ സാക്ഷരതയുടെ വികസനം എന്നിവ പരിശോധിക്കുന്നു 47 മത്തെ ഡിവിഷൻ സ്പോർട്സ് എക്സസൈസ് ആൻഡ് പെർഫോർമൻസ് സൈക്കോളജി എന്നതാണ് ഇവിടെയുള്ള വിദഗ്ധർ അഭ്യാസത്തിൻറെ മേഖലയിൽ ശ്രദ്ധിക്കുന്നവരാണ് 48 മത്തെ ഡിവിഷൻ പീസ് കോൺഫ്ലിക്റ്റ് ആൻഡ് വയലൻസ് എന്നതാണ് സമാധാനം അക്രമരഹിതമായ തർക്കപരിഹാരങ്ങൾ അനുരഞ്ജനവും കാരണങ്ങളും അനന്തരഫലങ്ങളും അക്രമങ്ങൾ തടയലും കൂടാതെ നാശത്തിനിടയാക്കുന്ന സംഘർഷം എന്നിവയാണ് ഇവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന വിഷയങ്ങൾ 49 മത്തെ ഡിവിഷൻ ഗ്രൂപ്പ് സൈക്കോളജി ആൻഡ് ഗ്രൂപ്പ് സൈക്കോതെറാപ്പി ആണ് ഈ രണ്ടു വിഷയങ്ങളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് അൻപതാമത്തെ ഡിവിഷനായ അഡിക്ഷൻ സൈക്കോളജി അടിസ്ഥാനപരമായും നോക്കുന്നത് അഡിക്ടീവ് ബിഹേവിയറിനെക്കുറിച്ചാണ് മദ്യം പുകയില മറ്റു മയക്കുമരുന്നുകൾ എന്നിവയുടെ പ്രശ്നകരമായ ഉപയോഗമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ചൂതാട്ടം ഭക്ഷണം കഴിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ ലൈംഗികമായ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ പണം ചിലവാക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്നിവയും ഈ മേഖലയിലുള്ള സൈക്കോളജിസ്റ്റുകൾ ശ്രദ്ധിക്കുന്നു 51 മത്തെ ഡിവിഷനിൽ സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് മെൻ ആൻഡ് മസ്കുലിനിറ്റി ആണ് ഉൾപ്പെട്ടിട്ടുള്ളത് പുരുഷന്മാർ അഭിമുഖീകരിക്കുന്ന ഗൌരവകരമായ പ്രശ്നങ്ങളാണ് അവർ പരിശോധിക്കുന്നത് അമ്പത്തി രണ്ടാമത്തെ ഡിവിഷൻ ഇൻറർനാഷണൽ സൈക്കോളജി ഡിവിഷൻ ആണ് ഇവർ സന്ദർഭത്തിനനുസൃതവും സാംസ്കാരികമായി ഉൾക്കൊള്ളുന്നതുമായ മനഃശാസ്ത്രത്തിൻറെ വികസനത്തിനും പരിശീലനത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും പൊതുതാൽപര്യത്തിന് അനുസരിച്ചുള്ള സേവനം നൽകുകയും ആഗോള കാഴ്ചപ്പാടിൻറെ പ്രചാരണം നടത്തുകയും ചെയ്യുന്നു അമ്പത്തി മൂന്നാമത്തെ ഡിവിഷനിൽ ക്ലിനിക്കൽ ചൈൽഡ് ആൻഡ് അഡോളസൻസ് സൈക്കോളജി ആണുള്ളത് ഇവിടെ കുട്ടികളുടെയും യുവാക്കളുടെയും കുടുംബത്തിൻറെയും മാനസിക ആരോഗ്യമാണ് ശ്രദ്ധിക്കുന്നത് അമ്പത്തിനാലാമത്തെ ഡിവിഷനിൽ പീഡിയാട്രിക് സൈക്കോളജി ഡിവിഷനാണ് ഇവിടെ സൈക്കോളജിയുടെ തത്വങ്ങളും അതിൻറെ പ്രായോഗികതയും കുട്ടികളുടെ ആരോഗ്യത്തിൻറെ കാഴ്ചപ്പാടിൽനിന്ന് പരിശോധിക്കുന്നു കുട്ടികളുടെയും യുവാക്കളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആരോഗ്യം വികസനം എന്നുള്ളത് തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള രീതികളിലൂടെ നോക്കുന്നു 55 മത്തെ ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത് അഡ്വാൻസ്മെൻറ് ഓഫ് ഫാർമക്കോതെറാപ്പി ഫാർമക്കോതെറാപ്പിയുടെ ഉന്നമനമാണ് ഈ ഡിവിഷനിൽ മാനസിക ചികിത്സ എങ്ങനെ സൈക്കോ ഫാർമക്കോളജി മെഡിക്കേഷനുമായി കൂട്ടിയിണക്കി ചെയ്യാം എന്ന് നോക്കുന്നു ഏറ്റവുമൊടുവിലത്തെ ഡിവിഷൻ അതായത് അമ്പത്തിയാറാമതായിട്ടുള്ള ട്രോമാ സൈക്കോളജി ഡിവിഷനാണ് ഇവിടെ തൊഴിലധിഷ്ഠിതവും പൊതു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതുമായ ട്രോമാറ്റിക് സ്ട്രസ്സ് ആണ് പരിശോധിക്കുന്നത് ഇവിടെ പരാമർശിച്ചിട്ടുള്ള എല്ലാ ഡിവിഷനുകളും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എല്ലാ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഡിവിഷനുകളും പറയുന്നത് മനശാസ്ത്രത്തിൻറെ അറിവ് എത്രത്തോളം വ്യാപകമായി കിടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനുഷ്യ സംബന്ധമായ എന്ത് ചിന്തിച്ചാലും അത് ഏതെങ്കിലും ഒരു മനഃശാസ്ത്ര വിഭാഗം കൈകാര്യം ചെയ്യുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് സൈക്കോളജി എന്ന വിഷയം പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻറെ വിവിധ ഡിവിഷനുകൾ പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനഃശാസ്ത്രജ്ഞർ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ മേഖലകളെക്കുറിച്ച് മുഴുവനായുള്ള ധാരണ ലഭിച്ചിട്ടുണ്ട് ഇനി ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം ജനറൽ സൈക്കോളജി പ്രധാനമായും സ്വഭാവത്തിലെ അടിസ്ഥാന സവിശേഷതകളെ പരിശോധിക്കുന്നു ഇവിടെ അന്വേഷിക്കുന്നത് പൊതുവായതും അടിസ്ഥാനപരവുമായ പ്രക്രിയയും അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുമാണ് ന്യൂറോ സൈക്കോളജി തലച്ചോർ നാഡീവ്യൂഹം എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്നിവയെ നിരീക്ഷിക്കുന്നു കൂടാതെ ശരീരശാസ്ത്രത്തെ സ്വഭാവവുമായി ബന്ധിപ്പിക്കാനും ശ്രമിക്കുന്നു അതേസമയം കംപാരറ്റീവ് സൈക്കോളജി മൃഗങ്ങളുടെയും മനുഷ്യരുടേയും സ്വഭാവത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു താരതമ്യേനെ വളരെ വികസിതവും സൈക്കോളജിയുടെ ശാഖകളിൽ വളരെയധികം ഉപയോഗത്തിലുള്ളതുമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡിവിഷൻ ഇവിടെ നിങ്ങൾക്ക് മനഃശാസ്ത്രപരമായ തത്വങ്ങൾ വിദ്യാഭ്യാസപരമായ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതു കാണാം അവർ പ്രധാനമായും അധ്യാപനത്തെക്കുറിച്ചും പഠന പ്രകൃതിയെക്കുറിച്ചും പഠിക്കുകയും അവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു ബാച്ചിലർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഉള്ള ബി എഡ്പ് പ്രോഗ്രാം എം എഡ് പ്രോഗ്രാം എന്നിവ ഈ സൈക്കോളജിയിൽ നിന്നാണ് ധാരാളമായി കടമെടുത്തിരിക്കുന്നത് ഡെവലപ്മെൻറൽ സൈക്കോളജി കോഗ്നിറ്റീവ് സൈക്കോളജി സൈക്കോളജിയുടെ ഓർഗനൈസേഷനൽ അബ്നോർമൽ കൂടാതെ ക്ലിനിക്കൽ വശങ്ങൾ മിലിറ്ററി സൈക്കോളജി എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഇപ്പോൾ ഈ ഡിവിഷൻ സായുധസേനകളുടെ ആവശ്യങ്ങളെ യാണ് വീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഇതെന്തുകൊണ്ട് എന്നുവച്ചാൽ ഇപ്പോൾ നിങ്ങൾ പ്രതിരോധ സേവനങ്ങളുടെ പ്രത്യേക വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സൈനിക ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ് അവർക്കുവേണ്ടിയുള്ള പരിശീലന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കൽ ഓഫീസർമാർക്ക് ഈ സേവനങ്ങളിൽ അത്യന്താപേക്ഷിതമായി വേണ്ട സവിശേഷ ഗുണങ്ങളുടെ വികസനം എന്നിവയാണ് ഇതെല്ലാം കൂടാതെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം ഇവരുടെ മനോവീര്യം സേനയ്ക്ക് അകത്തും പുറത്തും സംരക്ഷിക്കുക എന്നതാണ് ഹെൽത്ത് സൈക്കോളജി കമ്മ്യൂണിറ്റി സൈക്കോളജി എന്നിവയെപറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു എൻവിയോൺമെൻറൽ സൈക്കോളജിയെകുറിച്ച് പ്രതിപാദിച്ചപ്പോൾ അവിടെ രണ്ട് കൌതുകകരമായ വശങ്ങൾ ചർച്ചചെയ്തിരുന്നു അവയിലൊന്ന് കറക്ഷണൽ സൈക്കോളജി ആണ് ഇവിടെ ആളുകൾ ക്രമസമാധാന ലംഘനങ്ങളെ സംബന്ധിച്ച സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കുകയും അവയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു നമ്മുടെ രാജ്യത്ത് വളരെയധികം വികസിതമല്ലാത്ത സൈക്കോളജിയിലെ മറ്റൊരു മേഖലയാണ് ഏറോസ്പേസ് സൈക്കോളജി ഇവിടെ ബഹിരാകാശം ബഹിരാകാശപേടകം അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ശരീരശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായ വ്യതിയാനങ്ങൾ എന്നിവയാണ് പരിശോധിക്കുന്നത് സ്പോർട്സ് സൈക്കോളജി വളർന്നു വരുന്ന മേഖലകളിൽ ഒന്നാണ് ഇവിടെ മോട്ടിവേഷൻ ഹൈറിസ്ക് സ്പോർട്സ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പരിശോധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അത്ര വികസിതമല്ലാത്ത സൈക്കോളജിയുടെ മറ്റൊരു മേഖലയാണ് പൊളിറ്റിക്കൽ സൈക്കോളജി ഇവിടെ ആളുകളും ഭരണാധികാരികളും തമ്മിലുള്ള ബന്ധങ്ങളിലെ പൊതുവേ രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രശ്നങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത് അപ്പോൾ മനഃശാസ്ത്രത്തിൻറെ പൂർണ്ണമായുള്ള വ്യാപ്തി ഇതാണ് മനഃശാസ്ത്രത്തിൻറെ വിവിധതരം ഡിവിഷനുകളിലൂടെയും പുതിയതായി വരുന്ന മേഖലകളിലൂടെയും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതിൻറെ ഉദ്ദേശം എന്തെന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ വിഷയത്തിൻറെ പ്രാധാന്യം ബോധ്യമാക്കുക എന്നതാണ് അടുത്ത തവണ കാണുമ്പോൾ നമ്മൾ സൈക്കോളജിയുടെ വിവിധ സ്കൂൾസ് ഓഫ് തോട്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടും പിന്നീട് പ്രധാനമായുള്ള മൈൽസ്റ്റോണുകളെ പറ്റിയും ചർച്ച ചെയ്യും തുടർന്ന് നമ്മൾ വിവിധ ഉപാധികളെ പരിചയപ്പെടുന്നതായിരിക്കും ഇതോടെ നിങ്ങൾ അടിസ്ഥാനപരമായി മനഃശാസ്ത്രത്തെക്കുറിച്ച് ആകമാനമുള്ള അറിവ് നേടിക്കഴിഞ്ഞിരിക്കും എന്താണ് മനഃശാസ്ത്രം ഏതൊക്കെയാണ് പ്രധാനമായ മേഖലകൾ ഉപാധികൾ എന്നതിനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കുന്നു അതുകഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ പ്രത്യേക മൊഡ്യൂളുകൾ തുടങ്ങുകയും ഇവിടെ പെർസെപ്ഷൻ ലേണിങ് മെമ്മറി ഇമോഷൻ ജനറ്റിക്സ് ബിഹേവിയർ എന്നിങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് ഈ കോഴ്സിൻറെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏഴ് ആഴ്ചകളിലായി നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന ചില തിയറികളും ലാബ് സെറ്റപ്പിൽ അവയുടെ പ്രയോഗവും എങ്ങനെയാണെന്നതിനെ പറ്റി മനസ്സിലാക്കുന്നു അപ്പോൾ അടുത്ത ലക്ച്ചറിൽ കാണാം സൂചക പദങ്ങൾ എന്തുകൊണ്ട് മനഃശാസ്ത്രം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ മനഃശാസ്ത്രത്തിൻറെ മേഖലകൾ